സ്ഫറിക്കൽ പോളാർ കോ ഓർഡിനേറ്റുകളിലെ ലൈൻ സർഫേസ് ഏരിയ വോളിയം എലെമെന്റുകൾ കഴിഞ്ഞ ലെക്ച്ചറിൽ നാം കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റുകളിലെ ലൈൻ സർഫേസ് ഏരിയ വോളിയം എലെമെന്റുകൾ കണ്ടു ഈ ലെക്ച്ചറിൽ നമുക്ക് സ്ഫറിക്കൽ കോ ഓർഡിനേറ്റു സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഒരു സ്ഫറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റ്നെ സൂചിപ്പിക്കുന്നത് ഒറിജിനിൽ നിന്നും ഉള്ള അതിൻറെ ദൂരം ഞാൻ അതിനെ r എന്ന് വിളിക്കുന്നൂ കൂടാതെ ഞാൻ ഈ പോയിന്റ് അടങ്ങിയ പ്ളേനും z ആക്സിസും എടുക്കുന്നു അപ്പോൾ ഇതാണ് r ഒറിജിനിൽ നിന്നും പോയിന്റി വിലേക്ക് ഉള്ള ദൂരം ഈ പ്ളേനിൽ ഞാൻ z ആക്സിസിൽ നിന്നും ഈ പോയിന്റും ഒറിജിനും ബന്ധിപ്പിക്കുന്ന രേഖയിലേക്കുള്ള ആംഗിൾ അളക്കുകയാണെന്കിൽ അതിനെ തീറ്റ എന്ന് വിളിക്കാം കൂടാതെ ഈ പ്ളേനിലുള്ള ആംഗിൾ ഈ മുഴുവൻ പ്ളേനും x ആക്സിസിൽ നിന്നും ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ എന്ന് വിളിക്കാം അപ്പോൾ ഈ പോയിന്റ് ആർ തീറ്റ യും ഫൈയും കൊണ്ട് നിശ്ചയിക്കുന്നു ഈ മുഴുവൻ ഇടവും കൈകാര്യം ചെയ്യാൻ വേണ്ടി നാം ആർ പൂജ്യത്തിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്കും തീറ്റ പൂജ്യത്തിൽ നിന്നും പൈയിലേക്കും നീങ്ങാൻ അനുവദിക്കുന്നുണ്ട് അതന്നർത്ഥം ഇത് പ്ളസ് സെഡ് മുതൽ മൈനസ് സെഡ് വരെയും ഫൈ പൂജ്യത്തിൽ നിന്നും 2 പൈ വരെയും ആകുമ്പോൾ മുഴുവൻ ഇടവും കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ ഇവയാണ് വേരിയബിളൂകളുടെ പരിധി കാർട്ടീഷ്യൻ കൊ ഓർഡിനേറ്റിൽ ആർ തീറ്റ യുടെയും ഫൈയുടെയും ബന്ധം നിങ്ങൾക്ക് പെട്ടെന്ന് കാണുവാൻ കഴിയും ആർ എന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലാതൊന്നുമല്ല തീറ്റ എന്നത് z ആക്സിസിന്റെയും r ന്റെ യും ഇടയിലുള്ള ആംഗിൾ ആണ് അതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുവാൻ കഴിയുന്നത് കൊസൈൻ തീറ്റ zr ആയിരിക്കും താഴെ ഫോർമുല കാണുക മൂന്നാമത് ഈ ആർ ന് എക്സ് വൈ പ്ളേനിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട് അതാണ് ഈ കനമുള്ള ചുവന്ന വര അത് ആർ സൈൻ തീറ്റ അല്ലാതൊന്നുമല്ല കൂടാതെ നിങ്ങൾ കഴിഞ്ഞ ലക്ചർ ശരിക്ക് പഠിച്ചു എങ്കിൽ ഈ ആർ സൈൻ തീറ്റ സിലിണ്ടറിക്കൽ കോഓർഡിനേറ്റ് സിസ്റ്റത്തിന്റെ എസ് അല്ലാതൊന്നുമല്ല അതിനാൽ എക്സ് കോ ഓർഡിനേറ്റ് ആർ സൈൻ തീറ്റ കോസ് ഫൈ വൈ കോ ഓർഡിനേറ്റ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ അല്ലാതൊന്നുമല്ല ഇത് പെട്ടെന്ന് നിങ്ങളോട് പറയുന്നത് ഫൈയുടെ ടാൻജന്റ് സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് പോലെ വൈ ഭാഗം എക്സ് ആണ് യൂണിറ്റ് വെക്റ്ററുകൾ എങ്ങിനെയാണ് അപ്പോൾ ഞാൻ ആർ ദിശയിലെ യൂണിറ്റ് വെക്റ്റർ ഇങ്ങനെ എടുക്കാൻ പോകുന്നു തീറ്റ ദിശയിൽ സെഡ് ആക്സിസിൽ ഉള്ള ഈ പോയിന്റ് അടങ്ങിയ ഈ പ്ളേനി ൽ ആയിരിക്കും അത് ഇതുപോലെ ആർ ന് ലംബമായിരിക്കും ഇതിനെ അതിനു തന്നെ സമാന്തരമായി നീക്കിയാൽ ഇത് ഇത് പോലെ താഴെക്ക് ചൂണ്ടുന്നു കൂടാതെ ഫൈ വെക്റ്റർ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് ഫൈ വെക്റ്റർ പോലെ ആർ തീറ്റക്കും ഫൈക്കും ലംബമായിരിക്കും അപ്പോൾ നമുക്ക് ആർ യൂണിറ്റ് വെക്ടർ തീറ്റ യൂണിറ്റ് വെക്ടർ ഫൈ യൂണിറ്റ് വെക്ടർ എന്നിവ എഴുതാം ഇവ ഒരു കോ ഓർഡിനേറ്റ് സിസ്റ്റം സൃഷ്ടിക്കുന്നു അതായത് മൂന്നു യൂണിറ്റ് വെക്റ്ററുകളും ഒന്നിനൊന്ന് ലംബമായിരിക്കും പക്ഷെ ഈ വെക്റ്ററുകൾ ആർ തീറ്റഫൈ ഇവയൊന്നും തന്നെ ശൂന്യതയിൽ സ്ഥിരമല്ല അവ സ്ഥിര യൂണിറ്റ് വെക്റ്ററുകൾ അല്ല നിങ്ങൾക്ക് അവയുടെ സ്ഥാനം വ്യത്യാസപ്പെടുത്താം അവ സ്വയവും വ്യത്യാസപ്പെടുന്നു നമുക്ക് അവയെ എക്സ്വൈസെഡ് യൂണിറ്റ് വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ എഴുതാം ആർ ഈ ദിശയിലേക്ക് ചൂണ്ടുന്നു നാം നേരത്തെ കണ്ടത് പോലെ യൂണിറ്റ് വെക്ടർ എടുത്താൽ അതിന്റെ നീളം ഒന്ന് ആണ് സെഡ് ഘടകം കോസൈൻ തീറ്റ അല്ലാതൊന്നുമല്ല അപ്പോൾ കോസൈൻ തീറ്റ സെഡ് പ്ലസ് എക്സ് വൈ പ്ളേനിലെ പ്രോജെക്ഷൻ അത് സൈൻ തീറ്റ ആണ് അതിനാൽ എക്സ് ഘടകം നാം കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതുപോലെ സൈൻ തീറ്റ കോസൈൻ ഫൈ ആണ് അപ്പോൾ എക്സ് ഘടകം സൈൻ തീറ്റ കോസൈൻ ഫൈ എക്സ് ദിശയിൽ പ്ലസ് വൈ ഘടകം സൈൻ തീറ്റ സൈൻ ഫൈ വൈ ദിശയിൽ ഇത് ആർ യൂണിറ്റ് വെക്ടർ ആകുന്നു തീറ്റ യൂണിറ്റ് വെക്ടർ എങ്ങിനെയാണ് തീറ്റ യൂണിറ്റ് വെക്ടർ ആറിന് ലംബമാണ് അതിനാൽ അത് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു ഞാൻ അത് എഴുതട്ടെ ഇതിനെ ചുവപ്പിൽ കാണിക്കുക അല്ലെങ്കിൽ പ്രത്യേകം കാണിക്കുക ഇതാണ് എന്റെ പോയിന്റ് തീറ്റ താഴോട്ട് ദിശയിലാണ് എക്സ് വൈ പ്ളേനിൽ നിന്ന് തീറ്റ ആംഗിളിൽ എക്സ് വൈ പ്ളേനിൽ ഇതിന്റെ ഘടകം കോസൈൻ തീറ്റ ആണ് അപ്പോൾ ഇത് കോസൈൻ തീറ്റ ആണ് കൂടാതെ വീണ്ടും ഇതിന് ഒരു കോസൈൻ ഫൈ ഘടകം എക്സ് ദിശയിൽ പ്ലസ് കോസൈൻ തീറ്റ ഉണ്ട് സൈൻ ഫൈ വൈ ദിശയിൽ സെഡ് ദിശയിൽ ഇതിന് ഒരു നെഗറ്റീവ് ഘടകം ഉണ്ട് അതിനാൽ ഇത് മൈനസ് സൈൻ തീറ്റ ഗുണം സെഡ് ആകുന്നു നിങ്ങൾക്ക് ഇപ്പോൾത്തന്നെ കാണാൻ കഴിയും ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഗണിതം എടുത്താൽ ആർ ഡോട്ട് തീറ്റ ഇത് പൂജ്യമാണ് ഇത് നിങ്ങൾക്ക് സൈൻ തീറ്റ കോസ് തീറ്റ കോസൈൻ സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ മൈനസ് സൈൻ തീറ്റ കോസൈൻ തീറ്റ അപ്പോൾ ഇത് പൂജ്യമാകുന്നു അപ്പോളവ അന്യോന്യം ലംബമാണ് ഫൈ യൂണിറ്റ് വെക്ടർ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റിലേത് പോലെ ഏതാണ്ട് സമമാണ് അതിനാൽ ഇതിന്റെ കോ ഓർഡിനേറ്റുകൾ മൈനസ് സൈൻ ഫൈ എക്സ് പ്ലസ് കോസൈൻ ഫൈ വൈ ആണ് ഇവയാണ് സ്ഫറിക്കൽ കോ ഓർഡിനേറ്റിലെ മൂന്നു യൂണിറ്റ് വെക്റ്ററുകൾ ലൈൻ എലെമെന്റിനെപ്പറ്റി എങ്ങിനെയാണ് പറയേണ്ടത് ആദ്യമായി പൊസിഷൻ വെക്ടർ പൊസിഷൻ വെക്ടർ ആർ എന്നത് ആർ യൂണിറ്റ് വെക്ടർ ആർ തന്നെയാണ് അതാണ് സ്ഫറിക്കൽ കോ ഓർഡിനേറ്റിലെ പൊസിഷൻ വെക്ടർ ഞാൻ ഒരു പോയിന്റിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ആറിനെ ആർ പ്ലസ് ഡി ആർ ആയി മാറ്റുന്നു തീറ്റയെ തീറ്റ പ്ലസ് ഡി തീറ്റ ആയി മാറ്റുന്നു ഫൈ യെ ഫൈ പ്ലസ് ഡി ഫൈ ആയി മാറ്റുന്നു അപ്പോൾ ഡി ആർ എന്നത് ഡി ആർ യൂണിറ്റ് വെക്ടർ ആർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഇത് സ്ഥിരമല്ല അപ്പോൾ ഇത് ഡി ആർ യൂണിറ്റ് വെക്ടർ ആർ പ്ലസ് ആർ ഗുണം ആർ യൂണിറ്റ് വെക്റ്ററിലെ വ്യത്യാസം ആണ് ആർ യൂണിറ്റ് വെക്റ്ററിലെ വ്യത്യാസം വരുന്നത് ആറിലേയും തീറ്റയിലെയും ഫൈ യിലെയും വ്യതാസങ്ങൾ കൊണ്ടാണ് ഓർമ്മിക്കുക എന്താണ് ആർ യൂണിറ്റ് വെക്ടർ ആർ യൂണിറ്റ് വെക്ടർ എന്നത് സൈൻ തീറ്റ കോസ് ഫൈ എക്സ് പ്ലസ് സൈൻ തീറ്റ സൈൻ ഫി വൈ പ്ലസ് കോസ് തീറ്റ സെഡ് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എനിക്ക് ഡി ആർ യൂണിറ്റ് വെക്ടർ എന്നത് കോസ് തീറ്റ കോസ് ഫൈ ഡി തീറ്റ എക്സ് പ്ലസ് സൈൻ തീറ്റ മൈനസ് സൈൻ ഫൈ ഡി ഫൈ എക്സ് പ്ലസ് രണ്ടാമത്തെ ടേം കോസ് തീറ്റ സൈൻ ഫൈ ഡി തീറ്റ വൈ പ്ലസ് സൈൻ തീറ്റ കോസ് ഫൈ ഡി ഫൈ വൈ ഇത് വൈ പ്ലസ് ഈ വ്യത്യാസം അതായത് മൈനസ് സൈൻ തീറ്റ സെഡ് ഈ ടേമുകൾ നോക്കുക ഇതും ഇതും ഞാൻ സൈൻ തീറ്റ വെളിയിൽ എടുത്താൽ ഇത് മൈനസ് സൈൻ ഫൈ എക്സ് പ്ലസ് കോസൈൻ ഫൈ വൈ കൂടാതെ ഇത് ഡി തീറ്റ ആയിരിക്കണംഈ പച്ച നിറത്തിൽ സർക്കിൾ ചെയ്തിട്ടുള്ള ടേം നോക്കുക കൂടാതെ ഇവിടെ ഞാൻ ഡിതീറ്റ പൊതുവായി എടുത്താൽ എനിക്ക് കോസൈൻ തീറ്റ കോസൈൻ ഫൈ എക്സ് പ്ലസ് കോസൈൻ തീറ്റ സൈൻ ഫൈ വൈ മൈനസ് സൈൻ തീറ്റ സെഡ് കിട്ടും ഈ യൂണിറ്റ് വെക്ടർ എന്താണ് ഇത് തീറ്റ യൂണിറ്റ് വെക്ടറാണ് അപ്പോൾ എനിക്ക് ഈ പച്ച നിറത്തിൽ എഴുതാം ഞാൻ ഇവിടേക്ക് പോകുന്നു എനിക്ക് ഈ പച്ച നിറത്തിലുള്ളത് എല്ലാം ചേർത്ത് ഡി തീറ്റ എഴുതാം തീറ്റ ദിശയിൽ ഈ നീല നിറത്തിൽ ഉള്ളവ ഇതും ഇതും ഞാൻ ഡി ഫൈ യും സൈൻ തീറ്റ യും വെളിയിൽ എടുത്താൽ മൈനസ് സൈൻ ഫൈ എക്സ് പ്ലസ് കോസൈൻ ഫൈ വൈ അതായത് ഡി ഫൈ യൂണിറ്റ് വെക്ടർ ബാക്കിയാകും അപ്പോൾ എനിക്കിത് പ്ലസ് സൈൻ തീറ്റ ഡി ഫൈ യൂണിറ്റ് വെക്ടർ എന്നെഴുതാം ഇവ ഇവിടെ ഇടുക അപ്പോൾ എന്താണ് എനിക്ക് കിട്ടുന്ന ലൈൻ എലമെന്റ് എന്നിക്കു കിട്ടുന്ന ലൈൻ എലമെന്റ് ഡി എൽ ആർ ദിശയിൽ ഡി ആർ പ്ലസ് ഡി തീറ്റ ഗുണം ആർ തീറ്റ ദിശയിൽ പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ദിശയിൽ ഇതിന് തുല്യമാണ് ഇത് വളരെ അർത്ഥവത്താണ് എന്തെന്നാൽ ഞാൻ കോ ഓർഡിനേറ്റ് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ആർ ദിശയിൽ നീങ്ങുന്ന ദൂരം ഡി ആർ ആണ് ഞാൻ തീറ്റ വ്യത്യാസപ്പെടുത്തുക യാണെങ്കിൽ ഈ ദൂരം ആർ ഡി തീറ്റ ആകും അപ്പോൾ അതാണ് ഈ ലൈൻ എലമെന്റ് കൂടാതെ ഞാൻ ഫൈ വ്യത്യാസപ്പെടുത്തിയാൽ ഞാൻ ഫൈ ദിശയിൽ പോകുന്ന ദൂരം ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ് അപ്പോൾ അതാണ് ലൈൻ എലമെന്റ് അടുത്തതായി നമുക്ക് സർഫേസ് ഏരിയ എലമെന്റ് നോക്കാം സർഫേസ് ഏരിയ എലെമെന്റുകൾ ആറിന് ലംബമായവ തീറ്റക്ക് ലംബമായവ ഫൈ ക്ക് ലംബമായവ എന്നിവയാണ് നമുക്ക് ആറിന് ലംബമായവയെ ആദ്യം നോക്കാം അത് ഏതാണ്ട് ഇങ്ങനെ കാണപ്പെടുന്നു ഈ ദൂരം ഈ യൂണിറ്റ് വെക്ടർ ആർ ആറിന് ലംബമാണ് കൂടാതെ ഈ ദൂരം എക്സ് വൈ സർഫേസിൽ നീങ്ങിയ ദൂരമാണ് അപ്പോൾ ഇത് ആർ സൈൻ തീറ്റ ഡി ഫൈ ആകുന്നു ഈ ദൂരം തീറ്റയിലെ വ്യത്യാസം മൂലമുള്ളതാണ് അപ്പോൾ ഇത് ആർ ഡി തീറ്റ ആണ് അപ്പോൾ ഈ സർഫേസ് എലമെന്റ് ഡി എസ ഞാൻ ഇങ്ങനെ എഴുതാം ആർ ഡി തീറ്റ ഗുണം ആർ സിം തീറ്റ ഡി ഫൈ ആർ ദിശയിൽ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം അപ്പോൾ ഡി എസ് ആർ ദിശയിൽ ആർ സ്ക്വയർ സൈൻ തീറ്റ നോക്കട്ടെ ഞാൻ നേരത്തെ ഡി തീറ്റ എഴുതിയെങ്കിലും ഇവിടെ ഡി തീറ്റ അപ്പോൾ ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഇത് എസ് ദിശയിലാണ് ഇവിടെ തീറ്റ പൂജ്യം മുതൽ പൈ വരെ മാറുന്നു കൂടാതെ ഫൈ പൂജ്യം മുതൽ രണ്ടു ഫൈ വരെ രണ്ടു പൈ വരെ മാറുന്നു ചിലപ്പോൾ ഇത് ആർ സ്ക്വയർ ഡി കോസൈൻ തീറ്റ ഡി ഫൈ അതായത് ഡി കോസൈൻ തീറ്റ യുടെ ഇന്റഗ്രൽ എനിക്ക് കോസൈൻ തീറ്റയെ ഒരു വേരിയബിൾ ആയി കണക്കാക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അപ്പോൾ കോസൈൻ തീറ്റ മൈനസ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുന്നു ഇത് ശരിയാണെന്ന് വളരെ എളുപ്പം കാണാൻ കഴിയും ഞാൻ ആർ റേഡിയസ് ഉള്ള ഒരു ഗോളം എടുത്താൽ സെന്റർ പോയിന്റ് ഒറിജിൻ ആണ് ഒരു ഏരിയ എലമെന്റ് എല്ലാ ഏരിയ എലെമെന്റുകളും എസ്സിന് ലംബമാണ് എന്തെന്നാൽ ഏരിയ റേഡിയസിനു ലംബമാണ് അപ്പോൾ ആകെ ഏരിയ എന്നത് ഇന്റഗ്രൽ ഡി എസ്സിന്റെ അളവ് ആർ ദിശയിൽ ആർ സ്ഥിരമാകയാൽ ആർസ്ക്വയർ ഡി കോസ് തീറ്റ 1 മുതൽ 1 വരെ ഡി ഫൈ പൂജ്യം മുതൽ 2 പൈ വരെ അത് നാലു പൈ ആർ സ്ക്വയർ ആയിരിക്കും തീറ്റക്കു ലംബമായി ഏരിയ എലമെന്റ് എങ്ങിനെയാണ് നമുക്കിത് നോക്കാം ഞ തീറ്റക്ക് ലംബമായി ഏരിയ എലമെന്റ് എടുക്കുകയാണെങ്കിൽ നീങ്ങുന്ന ദൂരങ്ങൾ ആർ ദിശയിലും ഫൈ ദിശയിലുമായിരിക്കും ഫൈ ദിശയിൽ ഇത് ആർ സൈൻ തീറ്റ ഡി ഫൈ ആർ ദിശയിൽ ഇത് ഡി ആർ ആയിരിക്കുംഇതാണ് എസ് ദിശയിലെ ഏരിയ എലമെന്റ് ഫൈ ക്ക് ലംബമായുള്ള ഏരിയ എലമെന്റ് അത് ഇവിടെയായിരിക്കും അത് വീണ്ടും കോ ഓർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ആർ തീറ്റ യും ഫൈ യും ഫൈക്ക് ലംബമായി ഒരു നീളം എലമെന്റ് തീറ്റ ദിശയിൽ അത് ആർ ഡി തീറ്റ ആയിരിക്കും അപ്പോൾ ഇവിടെ ആർ ഡി തീറ്റ ആർ ദിശയിൽ ഒന്ന് കൂടാതെ ഈ യൂണിറ്റ് വെക്ടർ ഫൈ ദിശയിൽ അങ്ങനെ ആർ ഡി തീറ്റ ഗുണം ഡി ആർ ഫൈ ദിശയിൽ വോളിയം എലമെന്റ് എങ്ങിനെയാണ് ഞാൻ ആദ്യം ഇവിടെ ഫൈ ദിശയിൽ ഒരു വോളിയം എലമെന്റ് ഉണ്ടാക്കാം അത് എങ്ങിനെയിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് ആർ ദിശയിലാണ് ഈ ദൂരം ഇത് കേന്ദ്രത്തിൽ പ്രോജക്ട് ചെയ്യുന്നത് പോലെയാണ് അപ്പോൾ ഈ ദൂരം പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചുവപ്പു നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ഡി ആർ ആണ് ഈ ദൂരം തീറ്റ ദിശയിൽ നീങ്ങുന്നു ഇത് ആർ ഡി തീറ്റ ആണ് ഇവയ്ക്കു രണ്ടിനും ലംബമായി ദൂരം ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ് അപ്പോൾ ഇവ ചെറിയ ദൂരങ്ങൾ വോളിയം എലെമെന്റിന്റെ ചെറിയ നീളം ചെറിയ വീതി ചെറിയ ഉയരം ഇവയാണ് അതിനാൽ വോളിയം എലമെന്റ് എന്നത് ഡി ആർ ഗുണം ആർ ഡി തീറ്റ ഗുണം ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ് ഇത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ക്ക് തുല്യമാണ് ഇത് ചിലപ്പോൾ ആർ സ്ക്വയർ ഡി കോസ് തീറ്റ ഡി ഫൈ എന്നും എഴുതാം ഈ ചിത്രം മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു മുറിയുടെ മൂല അല്ലെങ്കിൽ കഷ്ണം സങ്കൽപ്പിക്കുക എന്നിട്ട് അത് ഒറിജിൻ ആയി സങ്കൽപ്പിച്ച് എങ്ങിനെയാണ് തീറ്റ ആർ ഫൈ ദിശകളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുക അപ്പോൾ ഇവയെല്ലാമാണ് സ്ഫറിക്കൽ കോ ഓർഡിനേറ്റിലെ മൂന്നു ലൈൻ എലെമെന്റുകൾ ഏരിയ എലെമെന്റുകൾ വോളിയം എലെമെന്റുകൾ ഇതുപയോഗിച്ച് ഒരാൾക്ക് കേൾ ന്റെ നിർവചനം ഉപയോഗിച്ച് കേൾ ന്റെ വാക്യം കണ്ടുപിടിക്കാം ഡൈവേർജൻസിന്റെ നിർവചനം ഉപയോഗിച്ച് അതിന്റെ വാക്യവും കണ്ടുപിടിക്കാം അപ്പോൾ നാം രണ്ടു ലെക്ച്ചറുകളിലായി ലൈൻ എലെമെന്റുകൾ ഏരിയ എലെമെന്റുകൾ വോളിയം എലെമെന്റുകൾ എന്നിവ കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ സ്ഫറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ കണ്ടുപിടിച്ചു ഇവയും സ്റ്റോക്സ് തിയറം ഡൈവേർജെൻസ് തിയറം ഇവയും ഉപയോഗിച്ച് ഈ കോ ഓർഡിനേറ്റ് സിസ്റ്റങ്ങളിൽ ഗ്രേഡിയന്റ് ഡൈവേർജെൻസ് കേൾ എന്നിവയുടെ വാക്യങ്ങൾ കണ്ടുപിടിക്കാം